പ്രഭാഷണ 10 ലേക്കും എഞ്ചിനീയർമാർക്കുള്ള കോഴ് സ് ഡാറ്റാ സയൻസിന്റെ ആർ മൊഡ്യൂളിലെ അന്തിമ പ്രഭാഷണത്തിലേക്കും സ്വാഗതം മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ കണ്ടു ആർ പിന്തുണയ്ക്കുന്ന അടിസ്ഥാന ഡാറ്റ തരങ്ങൾ സ്ക്രിപ്റ്റുകൾ എങ്ങനെ എഴുതാം ഫംഗ്ഷനുകൾ എങ്ങനെ എഴുതാം നിയന്ത്രണ ഘടനകൾ എങ്ങനെ ചെയ്യാം പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യാം ഈ പ്രഭാഷണത്തിൽ ചില അടിസ്ഥാന ഗ്രാഫിക്സ് എങ്ങനെ സൃഷ്ടിക്കാമെന്ന് ഞങ്ങൾ കാണിച്ചുതരാം ആർ ഉപയോഗിച്ച് സ് കാറ്റർ പ്ലോട്ട് ലൈൻ പ്ലോട്ട് ബാർ പ്ലോട്ട് എന്നിവ പോലുള്ളവ കൂടുതൽ സങ്കീർണ്ണമായ ഗ്രാഫിക്സിന്റെ ആവശ്യകത എന്തുകൊണ്ട് ആർ അത് എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും ഞങ്ങൾ ഒരു ഹ്രസ്വ ആശയം നൽകും ആദ്യം ഞങ്ങൾ സ് കാറ്റർ പ്ലോട്ട് പരിഗണിക്കും ഞങ്ങൾക്ക് ചില സ്വതന്ത്ര വേരിയബിളും ആശ്രിത വേരിയബിളും ഉള്ള ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്ന പ്ലോട്ടുകളിൽ ഒന്നാണ് സ് കാറ്റർ പ്ലോട്ട് ആശ്രിത വേരിയബിൾ സ്വതന്ത്ര വേരിയബിളിനെ എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ആർ എന്നിലെ സ് കാറ്റർ പ്ലോട്ട് സൃഷ്ടിക്കുന്ന സ് കാറ്റർ പ്ലോട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇത് വളരെ ലളിതമാണ് ഇവിടെ ആദ്യത്തെ കമാൻഡ് കാണിക്കുന്നു ഇത് 1 മുതൽ 10 വരെ ഘടകങ്ങളുള്ള ഒരു വെക്റ്റർ സൃഷ്ടിക്കുന്നു ഇവിടെയുള്ള അടുത്ത കമാൻഡ് ഈ x എടുത്ത് x ന്റെ ബുദ്ധിപരമായ സ്ക്വയർ ഉപയോഗിച്ച് കണക്കുകൂട്ടുകയും തുടർന്ന് അതിനെ y മൂല്യത്തിലേക്ക് നിയോഗിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പ്ലോട്ട് വൈ ചെയ്യുമ്പോൾ അത് ഇവിടെ ഈ പ്ലോട്ട് സൃഷ്ടിക്കും ഞങ്ങൾ വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ എക്സ് എന്താണ് സ്വതന്ത്ര വേരിയബിൾ ആർ സൂചികയായി സ്വന്തം സ്വതന്ത്ര വേരിയബിൾ സൃഷ്ടിക്കുന്നു കാരണം ഈ വെക്ടറിൽ 10 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് വെക്റ്ററിലെ ഘടകങ്ങളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി സൂചിക സൃഷ്ടിക്കും തുടർന്ന് 1 മുതൽ 10 വരെയുള്ള ഘടകങ്ങളുടെ സ്ക്വയറുകളായ y മൂല്യങ്ങൾ 1 4 9 ഉം മറ്റും സൃഷ്ടിക്കും ഓണാണ് y അക്ഷത്തിലും 102 100 ലും കാണിച്ചിരിക്കുന്നു Y അക്ഷത്തിൽ 100 ആയി ഞങ്ങൾക്ക് അന്തിമ മൂല്യം ഉണ്ട് അതിനാൽ അന്തർനിർമ്മിതമായ ചില ഡാറ്റ സെറ്റ് ഉപയോഗിച്ച് സ് കാറ്റർ പ്ലോട്ട് വ്യക്തമാക്കാം അത് R ൽ ലഭ്യമാണ് അതിനാൽ പേര് ശൂന്യമായ കാറുകൾ സജ്ജമാക്കിയ ഡാറ്റയെക്കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അതിനാൽ ശൂന്യമായ കാറുകൾ ടൈപ്പുചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയും 11 വേരിയബിളുകളിൽ 32 നിരീക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ഡാറ്റ ഫ്രെയിമാണ് ഈ ഡാറ്റ സെറ്റ് വേരിയബിൾ സി വൈ എൽ എം പി ജി എന്നിവ പ്രതിനിധീകരിക്കുന്ന സിലിണ്ടറുകളുടെ എണ്ണം പോലുള്ള വേരിയബിളുകൾ ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് ഈ കാറുകൾ നൽകുന്ന മൈലേജ് എന്താണ് അത് ഞങ്ങൾക്ക് മൈലുകൾ ഗാലനും ഭാരവുമാണ് w t ഇത് കാറിന്റെ ഭാരവും മറ്റും ഇപ്പോൾ ഈ ഡാറ്റാ ഫ്രെയിമിന്റെ ഭാരം എം പി ജി എന്നിവ തമ്മിൽ ഒരു സ്കാറ്റർ പ്ലോട്ട് ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കാം അത് ചെയ്യുന്നതിന് ഞങ്ങൾ ഉപയോഗിക്കേണ്ടത് പ്ലോട്ട് കമാൻഡാണ് ഇതാണ് നിങ്ങളുടെ സ്വതന്ത്ര വേരിയബിൾ കാർ ഭാരം ഇത് ഒരു ഗാലന് നിങ്ങളുടെ ആശ്രിത വേരിയബിൾ മൈലാണ് കൂടാതെ എക്സ് അക്ഷത്തിന് ഒരു ലേബൽ നൽകുന്നതിന് ഗ്രാഫ് x ലാബിന്റെ ശീർഷകം നാമകരണം ചെയ്യാൻ ഈ പ്രധാന സഹായം സഹായിക്കുന്നു y അക്ഷത്തിന് ഒരു ലേബൽ നൽകാൻ y ലാബ് ഉപയോഗിക്കുന്നു ഈ പി സി പോയിന്റുകൾക്കുള്ള വ്യത്യസ്ത ആകൃതികളുമായി യോജിക്കുന്നു ഈ pch 19 ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ആകൃതിക്ക് യോജിക്കുന്നു ഒരു സ്കാറ്റർ പ്ലോട്ടിലെ പോയിന്റുകൾക്കായി വ്യത്യസ്ത രൂപങ്ങൾ നേടുന്നതിന് നിങ്ങൾക്ക് വ്യത്യസ്ത പിഎച്ച് മൂല്യങ്ങൾ ഉപയോഗിക്കാം അടുത്തതായി ഞങ്ങൾ ലൈൻ പ്ലോട്ട് നീക്കുന്നു ഞങ്ങൾ നേരത്തെ കണ്ട അതേ ഉദാഹരണം നിങ്ങൾക്ക് എടുക്കാം ഒരു ലൈൻ പ്ലോട്ട് സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതേ പ്ലോട്ട് കമാൻഡ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ l എന്ന അധിക ആർഗ്യുമെന്റ് തരം വ്യക്തമാക്കുക എന്നതാണ് അതിനാൽ l എന്ന തരം സ്കാറ്റർ പ്ലോട്ടിന് പകരം ഒരു വരി സൃഷ്ടിക്കുന്നു അടുത്തതായി ഞങ്ങൾ ബാർ പ്ലോട്ടിലേക്ക് നീങ്ങുന്നു ആർ യിൽ ബാർ പ്ലോട്ട് സൃഷ്ടിക്കുന്നതിനുള്ള വാക്യഘടന ഇപ്രകാരമാണ് ബാർ പ്ലോട്ട് h ലളിതമായി സൂക്ഷിക്കാൻ വെക്റ്റർ അല്ലെങ്കിൽ മെട്രിക്സുകളാകാൻ കഴിയുന്ന ഉയരങ്ങളാണിവ വെക്റ്ററുകളും പേരുകളും മാത്രം ഞങ്ങൾ കൈകാര്യം ചെയ്യും ഈ വാദം എന്താണ് ചെയ്യുന്നത് എച്ച് എക്സ് ലാബിലെയും വൈ ലാബിലെയും ഓരോ ആട്രിബ്യൂട്ടിനു കീഴിലുള്ള പേരുകൾ ഇത് അച്ചടിക്കും പ്രധാന സ്കാറ്റെർപ്ലറ്റിനായി ഞങ്ങൾ കണ്ട അതേ അർത്ഥങ്ങളുണ്ട് ബാർ പ്ലോട്ടിന് നിറം നൽകാനുള്ള ഒരു ഓപ്ഷൻ നിറം നൽകുന്നു ബാർ പ്ലോട്ട് സൃഷ്ടിക്കാൻ ഉപയോഗിക്കാൻ കഴിയുന്ന ആർ കോഡാണിത് 7 12 28 3 41 എന്നീ മൂല്യങ്ങളുള്ള ഒരു വെക്റ്ററായി ബാർകോഡുകളുടെ h ഉയരങ്ങൾ നിർവചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക വേരിയബിളുള്ള മറ്റൊരു വെക്റ്റർ സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ മൂല്യങ്ങളുണ്ട് ഇപ്പോൾ ഉയരങ്ങളും പേര് ആരംഭ ആർഗ്യുമെന്റുകളും ഉപയോഗിച്ച് ഒരു ബാർ പ്ലോട്ട് സൃഷ്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നു മാസമെന്ന നിലയിൽ m x ലാബായി Y ലാബ് വരുമാനവും എനിക്ക് ആവശ്യമുള്ള ബാർ നോട്ടുകളുടെ നിറവും നീലയും ശീർഷകം റവന്യൂ ചാർട്ടും അതിർത്തി ചുവപ്പുമാണ് അതിനാൽ നിങ്ങൾ ഈ കമാൻഡുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബാർ പ്ലോട്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ബാർ ചാർട്ടുകളുടെ ഉയരങ്ങളാണിവ ഇത് എ 3 ആണ് തുടർന്ന് ഡോട്ട് വേരിയബിളിൽ ഓരോ ഉയരത്തിന്റെയും അടിയിൽ അച്ചടിച്ച മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ പേരുകളിൽ ഞങ്ങൾക്ക് ഉണ്ട് x അക്ഷം മാസമാണ് y അക്ഷം വരുമാനമാണ് ശീർഷകം റവന്യൂ ചാർട്ട് ആണ് ഇപ്പോൾ ആധുനിക ഗ്രാഫിക്സിന്റെ ആവശ്യകത എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം ചുവടെ കാണിച്ചിരിക്കുന്നതുപോലെ ഒരൊറ്റ ചിത്രത്തിൽ ഒന്നിലധികം പ്ലോട്ടുകൾ കാണിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ പറയാം നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യും മുമ്പത്തെ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ചിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അതിനാൽ ഇതിനായി ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ കോഡ് ഉപയോഗിച്ച് കൃത്യമായ ചിത്രം പുനർനിർമ്മിക്കാൻ കഴിയും നിങ്ങൾ അറിയേണ്ടത് ലൂപ്പിനായി എവിടെ അവതരിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ പ്ലോട്ടിംഗിനായി ഏത് ഡാറ്റാ ഫ്രെയിമിന്റെ നിരകൾ തിരഞ്ഞെടുക്കണം ഓരോ ഗ്രാഫും ഗ്രിഡിൽ etcetera ൽ സ്ഥാപിക്കണം നിങ്ങൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും വിഷ്വലുകൾ കുറവാണ് അവിടെയാണ് ഞങ്ങൾക്ക് ആർ ൽ കൂടുതൽ സങ്കീർണ്ണമായ ഗ്രാഫിക്സ് പാക്കേജുകൾ വേണ്ടത് ഇവിടെയാണ് ggplot2 ചിത്രത്തിലേക്ക് വരുന്നത് ഈ കോഴ് സിൽ ആർ ഗ്രാഫിക്സ് സൃഷ്ടിക്കുന്നതിന് ggplot2 വളരെ മനോഹരമായ ഒരു പാക്കേജ് നൽകുന്നു ഞങ്ങൾ ggplot2 നെ വളരെയധികം കൈകാര്യം ചെയ്തിട്ടില്ല ചുരുക്കത്തിൽ ആർ അടിസ്ഥാന ഗ്രാഫിക്സിന്റെ വെല്ലുവിളികളും ദോഷങ്ങളും നൂതന പാക്കേജുകൾ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും ഞങ്ങൾ കണ്ടു ആർ യിൽ മനോഹരമായ ഗ്രാഫിക്സ് സൃഷ്ടിക്കുന്നതിന് ggplot2 പോലുള്ളവ ഇതുപയോഗിച്ച് ഞങ്ങൾ ഈ കോഴ്സിനായുള്ള ആർ മൊഡ്യൂൾ അവസാനിപ്പിക്കുന്നു ഈ കോഴ് സിലെ അടുത്ത മൊഡ്യൂളുകൾക്കായി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു